ഇനി നമുക്ക് സെർവോ വാൽവുകളിലേക്ക് വരാം അവസാധാരണഗതിയിൽ വ്യോമയാന ആപ്ലിക്കേഷനുകൾക്കായി വികസിപ്പിച്ചെടുത്തതാണ് കാരണം വ്യോമയാനത്തിൽ വിമാനത്തിൻറെ നിയന്ത്രണ ഉപരിതലങ്ങൾ വളരെ ഭാരം എൻറെ കയറുന്നതിനെതിരെ പ്രവർത്തിക്കുന്നതിനാൽ നിങ്ങൾ വളരെ കൃത്യമായ ചലനങ്ങൾ നടത്തേണ്ടതുണ്ട് ഇത് എയറോഡൈനാമിക് ആണ് കാരണം വിമാനം അന്തരീക്ഷത്തിലൂടെ വലിയ വേഗതയിൽ സഞ്ചരിക്കുന്നു അതിനാൽ ഉയർന്ന ലോഡിനെതിരെ വളരെ കൃത്യമായ ചലനം സൃഷ്ടിക്കേണ്ടതുണ്ട് ഈ ആവശ്യങ്ങൾക്കാണ് ഈ സെർവോ വാൽവുകൾ ആദ്യം വികസിപ്പിച്ചെടുത്തത് ഇത് മൊത്തം ക്ലോസ്ഡ് ലൂപ്പ് സാങ്കേതികവിദ്യയാണ് കാരണം ക്യാരക്ടർസ്റ്റിക്സ് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എല്ലാം വളരെ മികച്ചതുമാണ് നിങ്ങൾക്ക് ഇലക്ട്രിക് ഡ്രൈവിൻറെ പോലുള്ള മുമ്പത്തെ എല്ലാ ഗുണങ്ങളും ഉണ്ട് കൃത്യത കമ്പ്യൂട്ടിംഗ് ഇന്റർഫേസ് വഴക്കം പ്രോഗ്രാമബിലിറ്റി ഹൈഡ്രോളിക്സ് എല്ലാം ഉയർന്ന പവർ ഭാരം അനുപാതത്തിനു പോലും അതിനാൽ അടിസ്ഥാന ആശയം എന്തെന്നാൽ വളരെ സാധാരണമായ വളരെ ലളിതമായ ഒരു തരം സെർവോ വാൽവ് കാണുക ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ഈ റോഡ് മാറ്റിയെന്ന് കരുതുക എന്നിട്ട് നിങ്ങൾ ഈ ലിവർ വലിക്കുകയാണെങ്കിൽ അത് ഈ വഴി നീങ്ങും അത് ഈ ദിശയിലേക്ക് നീങ്ങുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ പോർട്ട് ഇതുമായി കണക്റ്റുചെയ്തിരിക്കുന്നു ടാങ്കുകൾ അവസാനം ഉണ്ട് ടാങ്കുകൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉഹിക്കാനാകും അതിനാൽ റിട്ടേൺ സ്ട്രോക്ക് നിയന്ത്രിക്കാൻ പോകുന്നുഇനി നമുക്ക് ടാങ്കിലേക്ക് നോക്കാം ഇതിലൂടെ ആണ് ദ്രാവകം ഒഴുകുന്നത് ഇപ്പോൾ രസകരമായ കാര്യം എന്താണ് എന്നാൽ ഫീഡ്ബാക് എവിടെയാണ് എന്നതാണ് രസകരമായ കാര്യം എന്താണ് എന്നാൽ ലോഡ് ബോഡിആയി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതിനാൽ നിങ്ങൾ ഈ ഭാഗത്തേക്ക് സ്പൂൾ വലിച്ചിടുകയാണെങ്കിൽ സിലിണ്ടർ ഏത് വശത്തേക്ക് നീങ്ങും അത് ഈ വശത്തേക്ക് നീങ്ങും അതിനാൽ ലോഡും ഈ വശത്തേക്ക് നീങ്ങുകയും ലോഡ് ബോഡിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഇപ്പോൾ ബോഡി ഈ വശത്തേക്ക് നീങ്ങും ഈ ബോഡി സ്പൂളല്ല സ്പൂൾ ലിവറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നുബോഡി ലോഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ബോഡി നീങ്ങും അതിനാൽ ബോഡിയുടെ ചലനം യഥാർത്ഥത്തിൽ മറ്റൊരു ദിശയിലുള്ള സ്പൂളിൻറെ ചലനം പോലെയാണ് കാരണം ഒഴുക്ക് തുറക്കൽ യഥാർത്ഥത്തിൽ ആപേക്ഷിക ചലനത്തിലൂടെയാണ് അതിനാൽ ബോഡിയും ഈ ദിശയിലേക്ക് നീങ്ങുന്നുവെങ്കിൽ വീണ്ടും ഈ ഫ്ലോ ഈ വാൽവ് അടയ്ക്കും അതിനാൽ പിസ്റ്റണിന്റെ ഒരു പ്രത്യേക സ്ഥാനമോ ലോഡിന്റെ ഒരു സ്ഥാനമോ ഈ ഫ്ലോ വീണ്ടും അടയ്ക്കും അത് അടയ്ക്കുന്നതുവരെ പ്രവാഹം ഉണ്ടാകുകയും വേഗത കൈവരിക്കുകയും ചെയ്യും ഈ ലോഡ് ഈ രീതിയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുംഅതിനാൽനിങ്ങൾ ലിവർ നീക്കുകയാണെങ്കിൽ വാൽവ് ഒരു ദിശയിലേക്ക് നീങ്ങുകയും ഒടുവിൽ വന്ന്നിൽക്കുകയും ചെയ്യും അതായത് ഫീഡ്ബാക്ക് വഴി ആണ് ഇത് സംഭവിക്കുന്നത് ഇതാണ് സാധാരണമായ വളരെ ലളിതമായ സെർവോ വാൽവ്നിൻറെ മെക്കാനിക്കൽ ക്രമീകരണം എന്ന് നിങ്ങൾക്ക് അറിയാം വിവിധ തരം സെർവോ വാൽവുകൾ ഉണ്ട് ഉദാഹരണത്തിന് ഒരാൾക്ക് ടു സ്റ്റേജ് വാൽവ് ഉണ്ടായിരിക്കാം ശരി ടു സ്റ്റേജ്വാൽവിൽ രണ്ടാമത്തേതിൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് വലിയ പവർ നിയന്ത്രിക്കാൻ താൽപ്പര്യമുണ്ട് അതിനാൽ അവസാന ഘട്ട വാൽവ് യഥാർത്ഥത്തിൽ വളരെ വലുതാണ് അതിനാൽ അതിന്റെ സ്പൂളിന്നെ നീക്കാൻ പോലും നിങ്ങൾക്ക് മറ്റൊരു സെർവോ വാൽവ് ആവശ്യമാണ് അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഒരു ആചുവേറ്റ്ർ ആവശ്യമാണ് അപ്പോൾ അതാണ് ആണ് ആദ്യഭാഗം അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൺട്രോൾ ഇൻപുട്ട് ഇവിടെ നൽകുന്നു അതിനനുസരിച്ച് നിങ്ങൾ ഇത് നീക്കുകയാണെങ്കിൽ ഈ പോർട്ട് തുറക്കുകയും സിലിണ്ടർ താഴേക്ക് നീങ്ങുകയും ചെയ്യും ഇനി ഇത് താഴേക്ക് നീങ്ങുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാൽ ഈ സിലിണ്ടർ ഇതുമായി ബന്ധിപ്പിക്കുകയും ഇത് ഇതുമായി ബന്ധിക്കപ്പെടുകയും ചെയ്യും അതിനാൽ ഇതാണ് പ്രധാന വാൽവ് ഇതാണ് പൈലറ്റ് വാൽവ് അതായത് ഇത് മറ്റൊരു വാൽവിലേക്ക് നയിക്കുന്ന ഒരു വാൽവാണ് ഒരു കാറിന് മുന്നിൽ ഒരു പൈലറ്റ്കാറിൻറെ അവകാശം നിങ്ങൾക്കറിയാവുന്നതുപോലെ അതായത് പൈലറ്റ് ആണ് യഥാർത്ഥത്തിൽ പിന്നില് കാറിനെ നിയന്ത്രിക്കുന്നത് അതിനാൽ ഈ രീതിയിൽ ഇത് ഡ്രൈവിംഗ് വാൽവാണ് ഇത് ഡ്രീവൺ വാൽവാണ് ഇതിൽ പോർട്ടുകൾ ബന്ധിപ്പിച്ചിരിക്കാം ഈ രണ്ട് പോർട്ടുകൾ എ ബി എന്നിവ പ്രധാന ആചുവേറ്റ്ർ ആയി ബന്ധിപ്പിക്കും അത് ഒരു വലിയ ലോഡ് ആകാം അങ്ങനെ നിങ്ങൾക്ക് പവർ ആംപ്ലിഫിക്കേഷൻ ലഭിക്കുന്നു ഇവിടെ ടൂർ സ്റ്റേജ് സെർവോ വാൽവ് നിർമ്മാണം കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക നിങ്ങൾക്ക് ആദ്യം രണ്ട് തരം പ്രഷർ നോഡ് ഉണ്ട് എവിടെയാണ് പ്രധാന വാൽവ് എവിടെയാണ് പൈലറ്റ് വാൽവ് എന്ന് നോക്കാം ഇതാണ് പൈലറ്റ് വാൽവ് ഇതാണ് പ്രധാന വാൽവ് ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആരാണ് പൈലറ്റ് വാൽവ് നീക്കുന്നത് എന്നതാണ് ഈ സോളിനോയിഡ് യഥാർത്ഥത്തിൽ ഒരു സ്പൂളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അത് കാണിച്ചിട്ടില്ല അതിനാൽ നമുക്ക് ഭാഗങ്ങൾ തിരിച്ചറിയാം നമുക്ക്നിനി ഈ സോളിനോയ്ഡ് നേ ചെറുതായിട്ട് ഒന്ന് തിരിക്കാം ഒരു ടോർക്ക് മോട്ടോർ ക്രമീകരണം പോലെ അത് എന്താണെന്ന് നമുക്ക് കാണാം ഇത് ഈ വാൽവിനെ ഈ രീതിയിൽ തള്ളിവിടുന്നുവെന്ന് കരുതുക അതിനാൽ ഒരു നിയന്ത്രണ മർദ്ദം വരുംഅങ്ങനെ ഈ വാൽവ് ഈ അറ്റത്തേക്ക് നീങ്ങുംഅങ്ങനെ മർദ്ദം ഇവിടെ വീഴും ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ ഒരു മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യും ഇവിടെ എന്താണ് മർദ്ദം ഇവിടെ മർദ്ദം പിസി ആണ് പക്ഷേ ഇവിടെ മർദ്ദം പിസി അല്ല കാരണം ഇത് ഈ വാൽവിലൂടെ കടന്നുപോകേണ്ടതിനാൽ ഇത് പിസിയേക്കാൾ കുറവായിരിക്കും വാസ്തവത്തിൽ ഈ വശം പിസിയാണ് ഈ വശം പിസിയേക്കാൾ കുറവാണ് ആണ് എന്നിട്ടും ഈ വഴി നീങ്ങണം എങ്കിൽ ഇവിടത്തെ നെറ്റ് ഫോഴ്സ് ഇവിടുത്തെ നെറ്റ് ഫോഴ്സിനേക്കാൾ കൂടുതലായിരിക്കണം അതിനാൽ ഏരിയ നിയന്ത്രിക്കണം അതിനാൽ ഇവിടത്തെ ഏരിയയഥാർത്ഥത്തിൽ ഇരട്ടി A ഉം ഇവിടെയുള്ള ഏരിയ A ഉം ആണ് അതിനാൽ ഇത് നീക്കുന്നതിന് മർദ്ദം പിസി ഭാഗം 2 ആകേണ്ടതുണ്ട് ഇവിടെ മർദ്ദം പിസി ഭാഗം 2 മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ ഇത് പിസി ഭാഗം 2 നിന്നും ഉയരുന്ന നിമിഷം ഈ വാൽവ് ഈ വഴിയിലേക്ക് മാറും നിങ്ങൾ കണ്ടത് ഇതാണ് അന്തിമ ആചുവേറ്റ്ർ ഇതാണ് മോട്ടോറുകൾ പിന്നെ ഈ വാൽവ് ഈ വഴി നീങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക ഒരുപക്ഷേ ഈ പോർട്ട് ഇവിടെ കണക്റ്റുചെയ്യുകയും ഈ പോർട്ട് ഇവിടെ കണക്റ്റുചെയ്യുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് മോട്ടോറുമായി പമ്പും ടാങ്കും കണക്റ്റുചെയ്യപ്പെടും ഇപ്പോൾ ഫീഡ്ബാക്ക് എവിടെയാണ് ഫീഡ്ബാക്ക് ഇവിടെയുണ്ട് ഇതാണ് ഫീഡ്ബാക്ക് ഘടകം അതിനാൽ ഈ സ്പൂൾ ഇതിനെ ഈ വഴി തള്ളുന്നു അങ്ങനെ തള്ളുമ്പോൾ ഒരു ഫൾക്രംഎത്തുന്നു ഇതാണ്ഫൾക്രം ഇത് വീണ്ടും സ്ലീവ് നേ തള്ളും അത് സ്പൂളിനെ ഇതിലൂടെ തള്ളിവിടുന്നു ഈ ഫീഡ്ബാക്ക് ഘടകം സ്ലീവുകളെ തള്ളിവിടുന്നു അങ്ങനെ അത് ഈ സ്ലീവ് നെ ഈ വഴി തള്ളിവിടുന്നു അതിനാൽ വീണ്ടും ആപേക്ഷിക ചലനം സ്ലീവിൻറെ ഈ ചലനം കറന്റ് സൃഷ്ടിച്ച സ്പൂളിൻറെ ആപേക്ഷിക ചലനത്തെ അസാധുവാക്കും അതിനാൽ വീണ്ടും ഒരു നിശ്ചിത സ്ഥാനത്ത് ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത വിടവിൽ ഇത് വീണ്ടും പിസി ഭാഗം 2 ആകും അതിനാൽ അത് പിസി ഭാഗം 2 ആകുമ്പോൾ ഇതിൻറെ മുകളിൽ ഒരു ബലവുമില്ല അങ്ങനെ അത് നിൽക്കും അതിനാൽ അത് ആ സ്ഥാനത്താണ് ഇപ്പോൾ അത് നിർത്താൻ വരുമ്പോൾ ഇവിടെ ഒരു നിശ്ചിത അളവിൽ ഉള്ള ഓപ്പണിങ് ഉണ്ട് അതിനെ ആശ്രയിച്ച് അതായത് നിങ്ങൾക്ക് ഒരു നിശ്ചിത അളവിൽ ഉള്ള ഓപ്പണിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത അളവിലുള്ള ഒഴുക്കും നിശ്ചിത അളവിലുള്ള സമ്മർദ്ദവും ഉണ്ടാവും അതിനാൽ നിങ്ങൾ ആ ഫ്ലോ റേറ്റിലോ ആ വേഗതയിലോ മോട്ടോർ ഓടിക്കാൻ പോകുന്നു അതിനാൽ ഇതാണ് രണ്ടാം ഘട്ട സെർവോ വാൽവിൻറെ പ്രവർത്തനം ആ ഫീഡ്ബാക്ക് ക്രമീകരണത്തിൻറെ ഒരു ചെറിയ വിശകലനമാണ് ഇത് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇത് ഉണ്ടെന്ന് കരുതുക ഇതൊരു വാൽവാണ് ഒരു ആചുവേറ്റ്ർ ഉണ്ട് കൂടാതെ അവിടെ ഒരു കണക്റ്റിംഗ് ലിങ്കും ഉണ്ട് അതിനാൽ നിങ്ങൾ ഇവിടെ ഒരു ഇൻപുട്ട് ചലനം നൽകുന്നു അപ്പോൾ എന്ത് സംഭവിക്കും ഇത് തുടക്കത്തിൽ ഈ വഴിയിലേക്ക് മാറും ഈ വഴിയിലേക്ക് മാറുന്ന നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്നുവെച്ചാൽ പമ്പ് ഇതിലേക്ക് കണക്റ്റുചെയ്യുകയും ടാങ്ക് ഇതിലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ആചുവേറ്റ്ർ ഈ വഴി നീങ്ങുന്നു ആചുവേറ്റ്ർ ഈ വഴി നീങ്ങുമ്പോൾ ഡബ്ല്യു ഈ വഴി നീങ്ങുന്നു അത് ഉയർത്താനും അത് നിലനിർത്താനും ഇടയാക്കും അതിനാൽ പ്രഭാവം കാരണത്തെ അസാധുവാക്കും അതുകൊണ്ടാണ് ഇത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആവുന്നതും അതിനാൽ തന്നെ ഇത് സ്റ്റേബിൾഉം ആകുന്നു അതായത് ഒഴുക്കിന് കാരണമാകുന്ന ഈ ഇസഡിൻറെ ചലനം വിശകലനം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇത് മനസിലാക്കണം എന്നിട്ട് നിങ്ങൾ ഇതിനെ ഇതുപോലെ നോക്കണം ആദ്യം അത് സങ്കൽപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ രണ്ട് ഇൻപുട്ടുകൾ ഉണ്ട് ആ ചലനമാണ് നിങ്ങൾ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ ആദ്യമായി നിങ്ങൾ സൂപ്പർപോസിഷൻ പ്രയോഗിക്കുന്നു അതിനാൽ ഡബ്ലിയു 0 ആണെന്ന് സങ്കൽപ്പിക്കുക എന്നിട്ട് എക്സ് കൊടുക്കുക അപ്പോൾ ഈ റോഡ് ഇതിനെ കേന്ദ്രീകരിച്ച് നീങ്ങാൻ തുടങ്ങുന്നു അതിന് കാരണം ഡബ്ലിയു 0 ആയതുകൊണ്ടാണ് അതിനാൽ ഇതിനെ ആധാരം ആക്കിയാൽ അത് കുറച്ച് ചലനം സൃഷ്ടിക്കും അടുത്തതായി എക്സ് നിശ്ചലം ആണെന്നും ഡബ്ല്യു ചലിക്കുന്നുവെന്നും സങ്കൽപ്പിക്കുക അതിനാൽ ഇപ്പോൾ ഇത് എക്സിനെ കേന്ദ്രീകൃതമായി നീങ്ങുന്നുവെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാം ഈ രണ്ട് ചലനങ്ങളാണ് ആണ് സൃഷ്ടിക്കപ്പെടുന്നത് അത് കൂടാതെ ആകെ ചലനം അതിന്റെ ഫലമായിരിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും ഡബ്ലിയു ഫൾക്രം ആവുകയും എക്സ് പ്രയോഗിക്കുകയാണെങ്കിൽ ഒരു അളവിൽ പ്രയോഗിച്ചാൽ ഇവിടെ എന്തായിരിക്കും ചലനം ശരി അതാണ് bab മറുവശത്ത് നിങ്ങൾ ഇത് ഇവിടെ ഉറപ്പിച്ച് ഒരു ചലനം കൊടുക്കുകയാണെങ്കിൽ Y ഇൽ ഉണ്ടാകുന്ന ചലനം ഇതാണ് abW ഡബ്ല്യു ആണ് ചലനം എന്ന് സങ്കൽപ്പിക്കുക അപ്പോൾ Z ഇൽ ഉണ്ടാക്കുന്ന ചലനം എത്രയെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതിനാൽ നിങ്ങൾക്ക് ഫലപ്രദമായ ഒരു ഫീഡ്ബാക്ക് ക്രമീകരണം ഉണ്ട് അവിടെ ഇതാണ് X സൃഷ്ടിച്ച ചലനം ഇതാണ് ഫീഡ്ബാക്ക് W സൃഷ്ടിച്ച ചലനം കൂടാതെ ഇതാണ് എപ്പോഴും നെറ്റ് ചലനം Z അതിനാൽ ചലനം ഒരു ഒഴുക്ക് സൃഷ്ടിക്കുന്നു ഇതാണ് ഫ്ലോ ഗെയിൻ അതിനാൽ ഇത് ഒരു വോള്യൂമെട്രിക് ഒഴുക്ക് സൃഷ്ടിക്കാൻ പോകുന്നു ഇത് Ap വിഭജിച്ച് നിങ്ങൾക്ക് ലീനിയർ ചലനം നൽകും Ap പിസ്റ്റണിന്റെ വിസ്തീർണ്ണം ആണ് 1S നിങ്ങൾക്ക് പ്രതലത്തിൽ ഉള്ള ചലനം നൽകും അതിനാൽ ഇതാണ് ഫലപ്രദമായ നിയന്ത്രണ സംവിധാനം ഇതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻഅതായത് YX ൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്ഥിരമായ അവസ്ഥയിൽ s 0 ലേക്ക് പോകുന്നു അതിനാൽ ഇത് a b a ആകാൻ പോകുന്നു ഇത് ഒരു ഫസ്റ്റ് ഓർഡർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പോലെ പ്രവർത്തിക്കും അതിനാൽ ഇതാണ് ഏതെങ്കിലും ഫീഡ്ബാക്കിൻറെ അടിസ്ഥാന ചലനാത്മകം നിങ്ങൾ പലതരം ഫീഡ്ബാക്ക് കണ്ടിട്ടുണ്ട് ലിങ്ക് ലിങ്കേജ് തരം ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ നിങ്ങൾക്കറിയാം അതിനാൽ ഇത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് ക്രമീകരണത്തിൻറെ അടിസ്ഥാന വിശകലനമാണിത് ഒരു സാധാരണ സാഹചര്യത്തിൽ ഇത്തരം വിശകലനം നമുക്ക് ഉപയോഗിക്കാം അടുത്തതായി നമ്മൾക്ക് മറ്റൊരു തരം സെർവോ വാൽവ് കാണാം അത് ഒരു ഫ്ലാപ്പർ തരം സെർവോ വാൽവാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ഇതാണ് വാൽവ് ഈ വാൽവ് നീക്കുവാൻ ആയി നമുക്ക് സമ്മർദ്ദം ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ ഇവിടെ നമ്മളൊരു ഒരു ഡിഫറൻഷ്യൽ മർദ്ദം ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇനി എങ്ങനെ ആ മർദ്ദം സൃഷ്ടിക്കും ഇത് ഏകദേശം ആയിരം പിഎസ്ഐ ആണ് ഇത് സമ്മർദം നിയന്ത്രിക്കുന്നു അതിനാൽ ഇത് സമ്മർദ്ദം കുറയ്ക്കുന്ന വാൽവാണ് ഒരു സീരീസ് തടസ്സം ഉണ്ടായാൽ മർദ്ദം ഇവിടെ താഴുകയും ഏതാണ്ട് ഈ രണ്ട് അറ്റത്തും 500 പിഎസ്ഐ വീതം ആവുകയും ചെയ്യുംഒരു ഫ്ലാപ്പർ നോസലാകുമ്പോൾ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനാൽ എപ്പോൾ ഈ ഫ്ലാപ്പറിൻറെ പ്രധാന സ്പൂൾ ചലിക്കുന്നുവോ അപ്പോൾ ഈ സ്ഥലത്തിലെ മർദ്ദം ഉയരുന്നു ഇത് ഈ ഭാഗമാണെങ്കിൽ ഈ വശത്തെ മർദ്ദം കുറയാൻ പോകുന്നു അങ്ങനെ അത് ഒരു വ്യത്യസ്ത സമ്മർദ്ദം സൃഷ്ടിക്കുന്നു അത് സ്പൂളിനെ ചലിപ്പിക്കും ഇതാണ് ഇതിൻറെ അടിസ്ഥാന തത്വം ഇനി നിങ്ങൾ എങ്ങനെ ഈ ചലനം സൃഷ്ടിക്കും ടോർക്ക് മോട്ടോർ കോയിൽ എന്നതിലൂടെ നിങ്ങൾ ഈ ചലനം സൃഷ്ടിക്കാൻ സാധിക്കുന്നു ഒരു ഫ്ലാപ്പറിന്റെ വളരെ ചെറിയ ചലനം പോലും നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ടോർക്ക്ഡ് അല്ലെങ്കിൽ ടോർക്ക് മോട്ടോർ ആണ് നിങ്ങൾക്ക് ഉള്ളത് ഫ്ലാപ്പർ നോസലിന്റെ പ്രയോജനം അവയുടെ ഗെയിൻ വളരെ ഉയർന്നതാണ് എന്നതാണ് അതായത് വളരെ ചെറിയ ചലനശേഷി കൊണ്ട് വളരെ ഉയർന്ന സമ്മർദ്ദ വ്യത്യാസം സൃഷ്ടിക്കാൻ സാധിക്കുന്നു അതുകൊണ്ടുതന്നെ അവ വളരെ സെൻസിറ്റീവ് ഉപകരണങ്ങളാണ് അടുത്തത് നിങ്ങൾ ടോർക്കിന്റെ നിർമ്മാണം ആണ് കാണാൻ പോകുന്നത് ഇതാണ് ടോർക്കിൻറെ നിർമ്മാണം അതിനാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഒരു എസ് പോൾ സൃഷ്ടിക്കുക തുടർന്ന് ഇവിടെ എൻ പോൾ അങ്ങനെയാണ് ആണ് അത് വൈൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പോൾ ഷൂ ഉണ്ട് അതിൽ നിങ്ങൾ വൈദ്യുത പ്രവാഹങ്ങൾൾ അയച്ചാൽ ഇത് റിപ്അൽ ചെയ്യുകയും ഇത് അറ്റ്റാക്റ്റ് ചെയ്യുകയും ചെയ്യും അതിനാൽ സ്റ്റോക്കർ ചെറുതായി ചരിയും ഇത് ഫ്ലാപ്പർമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതായത് ഫ്ലാപ്പർ പ്ലേറ്റ് ഇങ്ങനെയാണ് ആണ് ഫ്ലാപ്പർ നിങ്ങൾ നിയന്ത്രിക്കുന്നത് ഇതൊരു ചിത്രമാണ് മൂഗ് വളരെ പ്രശസ്തമായ വാൽവുകളുടെ നിർമ്മാണ കമ്പനിയാണ് അതിനാൽ ഇത് അവരുടെ വെബ്സൈറ്റിൽ നിന്നുള്ള ഒരു ചിത്രം മാത്രമാണ് ഇത് ഒരു പരിച്ഛേദ കാഴ്ചയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡ്രൈവ് വാൽവിനെക്കുറിച്ച് അറിയാം അതിനാൽ നിങ്ങൾക്ക് ഈ ഇലക്ട്രോണിക്സ്ൻറെ വിവിധ ഭാഗങ്ങൾ കാണാൻ കഴിയും ഇതാണ് യഥാർത്ഥ സെർവോ വാൽവ് ഇതാണ് കോയിൽ എന്നറിയപ്പെടുന്നത് അതാണ് സ്പൂളിനെ വലിക്കുന്നതു ഇവിടെ ആണ് പൊസിഷൻ സെൻസർ സാധാരണയായി അത് ഒരു എൽവിഡിടി ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ഒരു സ്പ്രിങ് ആയിരിക്കും ഉണ്ടാവുക ഇവിടെയാണ് നിങ്ങൾ ഇതിനെ ബന്ധിപ്പിക്കുന്നത് അതിനാൽ ഇത് വിവിധ ഭാഗങ്ങൾ കാണിക്കാൻ മാത്രമുള്ളതാണ് കൂടാതെ യഥാർത്ഥ രീതിയിൽ അവ എങ്ങനെ ഒരു സ്ഥാനത്തേക്ക് ഒരുമിച്ച് വെക്കുന്നു അവിടെ ഇവ വളരെ ഒതുക്കമുള്ള ഉപകരണങ്ങളാണ് നിങ്ങൾ എങ്ങനെയാണ് ക്ലോസ്ഡ് ലൂപ്പ് പൊസിഷൻ നിയന്ത്രണം ചെയ്യുന്നത് ഇത് വളരെ ലളിതമാണ് ഇത് ഒരു പൊസിഷൻ ലൂപ്പ് ആണ് അതിനാൽ നിങ്ങൾക്ക് പ്രപോർഷനൽ അല്ലെങ്കിൽ സെർവോ വാൽവ് ഉണ്ട് അത് ഈ ഇലക്ട്രോണിക്സ് പ്രവർത്തിപ്പിക്കുകയും ലോഡ് നീക്കുകയും ചെയ്യുന്നു ഇതാണ് സിലിണ്ടർ ലോഡിൻറെ സ്ഥാനം പൊസിഷൻ സെൻസർ ഉപയോഗിച്ച് മനസ്സിലാക്കുന്നു ഇത് സാധാരണയായി ഒരു എൽവിഡിടി ആണ് ചിലപ്പോൾ പൊട്ടൻഷോമീറ്റർ ആയിരിക്കും റോട്ടറിയാണെങ്കിൽ ഒരു റിസോൾവറായിരിക്കുക ഇവ രണ്ടും താരതമ്യം ചെയ്തു ഇറർ അതിലേക്കു കൊടുക്കുന്നു ഇതാണ് സ്റ്റാൻഡേർഡ് പൊസിഷൻ ലൂപ്പ് റാമ്പ് ജനറേറ്റർ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് കാരണം നിങ്ങൾക്ക് ആംപ്ലിഫയർ പൂരിതമാക്കേണ്ട ആവശ്യമില്ലെന്നും നിങ്ങൾ വളരെയധികം ലോഡ് ചെയ്യണമെന്നുമാണ് നിങ്ങൾക്ക് അധികമായി അനക്കം നല്കാൻ കഴിയില്ല അതുമൂലം ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചേക്കാം ലോഡുകൾക്ക് നാശമുണ്ടാക്കാം അതിനാൽ ഒരു സ്ഥാന സിഗ്നൽ മാറ്റേണ്ടി വരുമ്പോഴെല്ലാം അത് പോകേണ്ട നിരക്ക് നിങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള സിസ്റ്റത്തിന് നിങ്ങൾ ഒരിക്കലും സ്റ്റെപ്പ് സിഗ്നലുകൾ നൽകില്ല അതിനാൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകണമെങ്കിൽ ഒരു റാമ്പ് ജനറേറ്റർ ഉണ്ടായിരിക്കുക ഈ ലോഡിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വേഗത നിലയെ ആശ്രയിച്ചിരിക്കുന്ന ഒരു റാമ്പിലൂടെ നിങ്ങൾ സാവധാനം പോകുക ഇത് ആ ലൂപ്പിന്റെ ഉള്ളിലെ വാൽവിൻറെ ഒരു ബ്ലോക്ക് ഡയഗ്രം ക്രമീകരണമാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് കാണാം ഇവയാണ് ഇലക്ട്രിക്കൽ ഗെയിൻ ഇവ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഗെയിൻ ഇതാണ് സെൻസർ ഗെയിൻ ഇതാണ് വാൽവ് ഗെയിൻ അതിനാൽ ഇത് കറണ്ട് ഇത് വാൽവിന്റെ സ്വഭാവ സവിശേഷതയായ കറണ്ട് ഫ്ലോ KQ അതിനാൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത പ്രവാഹം ഉണ്ടാകുമ്പോൾ ആ ഒഴുക്ക് ഉള്ളിലേക്ക് പോകുന്നു അതിനാൽ ഫ്ലോ ഭാഗം ഏരിയ നിങ്ങൾക്ക് വെലോസിറ്റി നൽകും വെലോസിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്ഥാനം നൽകും ഇത് ഒരു ബ്ലോക്ക് ഡയഗ്രം പോലെയാണ് ചിലപ്പോൾ ഈ ഒഴുക്ക് നന്നായി പോകുന്നു ഉണ്ടാകും കാരണം ഒരു നിശ്ചിത KQ തുക ഉണ്ടായതുകൊണ്ട് അത്നിങ്ങൾക്കറിയാം ഇനി ഈ ഒഴുക്ക് ചെറുതായി മാറ്റ്പ്പെടാം എപ്പോഴാണ് എന്നാൽ പമ്പ്ൻറെ സപ്ലൈ പ്രഷർ മാറുമ്പോഴാണ് ഇനി നമ്മൾക്കു ഇതിൻറെ മാതൃക ഉണ്ടാക്കണംഎന്നുണ്ടെങ്കിൽ ഒരു പ്രഷർ ഡിസ്റ്റർബൻസ് ബ്ലോക്ക് കൂടി ഉൾപ്പെടുത്തേണ്ടത് ആയി ഉണ്ട് കാരണം ഇവ പൊതുവെ വളരെ കൃത്യമായ നിയന്ത്രണ ഉപകരണങ്ങളാണ് അതിനാൽ ഇതിൻറെ ഡൈനാമിക്സ് മനസിലാക്കേണ്ടത് പ്രധാനമാണ് കാരണം അതിൽ വളരെയധികം ലോഡ് വരുന്നുണ്ട് അതിൽ പ്രവർത്തിക്കുന്ന അത്രയും ശക്തി ഇതിൻറെ ചലനാത്മകതയെ യഥാർത്ഥത്തിൽ ബാധിക്കും ഉദാഹരണത്തിന് ഒരു വിമാനത്തിൽ ആക്യുവേറ്റഎൻറെ എൻറെ ചലനാത്മകം വളരെ പ്രധാനമാണ് അതിനാൽ നിങ്ങളുടെ കൈവശമുള്ള ഒരു ഇലക്ട്രോ ഹൈഡ്രോളിക് എയ്റോസ്പേസ് ആക്യുവേറ്ററിൽ നിങ്ങൾക്ക് സമാനമായ ഒരു ബ്ലോക്ക് ഉണ്ട് ഇതാണ് നിങ്ങളുടെ കണ്ട്രോൾ സർഫസ് സാധാരണ എയറോസ്പേസ്ൽ ഉപയോഗിക്കുന്ന വളരെയധികം സൂക്ഷ്മതയുള്ള ആക്ടിവിസ്റ്റുകൾ ആണ് ഇവ ഇതാണു സിലിൻഡർ അതിനെ നമ്മൾ റാം എന്ന് പറയും ഈ സിലിണ്ടർ ഒരു സർവോ വാൽവ് വഴിയാണു നിയന്ത്രിക്കുന്നത് ഈ സർവോവാൽവ് ഒരു ഫോഴ്സ് മോട്ടർ ആണു നിയന്ത്രിക്കുന്നത് ഇനി ഈഫോഴ്സ് മോട്ടർ കോയിൽ ആണ് ഈ വാൽവിൻറെ സ്കൂളിനെ നിയന്ത്രിക്കുന്നത് കോയിൽ നിയന്ത്രിക്കുന്നത് ഒരു ഇലക്ട്രോണിക്സ് വഴിയും ഒരു സർവോ ആംപ്ലിഫയർ വഴിയുമാണ് അതായത് വിവിധതരം ഫീഡ്ബാക്ക്കൾ ഉണ്ട് ഒരു കറണ്ട് ഫീഡ്ബാക്ക് അത് ഇതിനുള്ളിലാണ് ആണ് അത് ഫോഴ്സ് മോട്ടോഴ്സ് കറണ്ട് സെൻസ് ചെയ്തു ഇവിടെ ഫീഡ്ബാക്ക് ചെയ്യുന്നു പിന്നെ ഒരു ഹൈഡ്രോളിക് സെർവോ വാൽവ്ൻറെ സ്പൂൾപൊസിഷൻ ഫീഡ്ബാക്ക് ഉണ്ട് അവസാനമായി ആയി അക്ക്ച്ചുവൽകൺട്രോൾ സർഫസിൻറെ ഒരു റാമ്പ് പോസിഷൻ ഫീഡ്ബാക്ക് ഉം ഉണ്ട് അതിനാൽ ഇവ കാസ്കേഡ് ലൂപ്പുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഞങ്ങൾ ഇത് കൂടുതൽ വിശദമായി ചെയ്യില്ല പക്ഷേ സാധാരണ ഡ്രൈവ് ഇലക്ട്രോണിക്സ് ആണ്ഉദാഹരണത്തിന് നിങ്ങൾ സെർവോ ആംപ്ലിഫയറുകളും വി ഐ കൺവെർട്ടറുകളും ഉപയോഗിക്കുമ്പോൾ വിവിധ തരം ഫിൽറ്ററുകൾ ആവശ്യമായി വരാറുണ്ട് കാരണം നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അനുരണനം പോലുള്ള കാര്യങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഇൻപുട്ടുകൾ നിങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നിങ്ങളുടെ ഇൻപുട്ടിൽ നിന്നും ചില ഫ്രീക്വൻസികൾ മുറിച്ചുമാറ്റേണ്ടതുണ്ട് വിവിധ തരം നോച്ച് ഫിൽട്ടർ ആവശ്യമായി വരും അതിനാൽ ഇതിനെ ലോഡ് റെസൊണൻസ് നോച്ച് എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ച് ഉരുകിയ ഉരുക്ക് വഹിക്കുകയാണെങ്കിൽ ചില സ്വാഭാവിക ആവൃത്തികളുണ്ട് ഇനി നിങ്ങൾ ഒരു ഇൻപുട്ട് ആ ആവൃത്തിയിൽ കൊടുക്കുകയാണെങ്കിൽ ഉരുകി ഉരുക്ക് സ്പിൽ ഓവർ ആയിപ്പോകും അതുകൊണ്ട് അവിടെ നിങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ ലിക്വിഡ്സ്റ്റീലിലോ മറ്റെന്തെങ്കിലുമോ തരംഗങ്ങൾ സൃഷ്ടിക്കപ്പെടില്ല ഈ ആവശ്യങ്ങൾക്കായി ഇൻപുട്ടിന്റെ ചില ആവൃത്തികൾ മുറിച്ചുമാറ്റണം അതിനാൽ ഇത് ഒരു സാധാരണ ലൂപ്പാണ് നിങ്ങൾ സ്പൂൾ ഡൈനാമിക്സ് കാണുകയാണെങ്കിൽ ഇത് വളരെ ലളിതമാണ് സ്പൂളിൽ കുറച്ച് ഫോഴ്സ് ഉണ്ട് ഇത് കോയിൽ സൃഷ്ടിച്ചതാണ് ഇത് ഒരു നിശ്ചിത അളവിലുള്ള ത്വരണം സൃഷ്ടിക്കുന്നു ഇത് ത്വരണം ഇത് വേഗത അതിനാൽ നിങ്ങൾക്ക് ഘർഷണ ഫീഡ്ബാക്ക് ഉണ്ട് കൂടാതെ ഇത് അവസാന സ്പൂൾ സ്ഥാനമാണ് നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ഫീഡ്ബാക്ക് തിരിച്ചുള്ളതാണ് നിങ്ങൾക്ക് ഒരു സ്പ്രിംഗ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ സ്പ്രിംഗ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് സ്പ്രിംഗ് ഫോഴ്സും നിങ്ങൾക്ക് ഒരു ബെർണൂലി ഫോഴ്സും ഉണ്ട് അതായത് ഇത് സംഭവിക്കുന്നത് വാൽവിലൂടെ ഒഴുകുന്ന ദ്രാവകം കാരണമാണ് സ്പൂളിലെ ഒരു ഫോഴ്സ് ഉള്ളത് അതിനാൽ ചില ഫോഴ്സ് സ്പൂളിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ഇവ ഫീഡ്ബാക്ക് ഘടകങ്ങളായി പ്രവർത്തിക്കുന്നു അത് കാരണം ഇത് സ്പൂളിൽ ചലനം സൃഷ്ടിക്കുന്നു അതുപോലെ റാമിന് ഉള്ളിലെ സ്പൂളിന്റെ ചലനവും റാമിലേക്കുള്ള ഒഴുക്കും വിതരണ സമ്മർദ്ദത്തെയും സ്പൂളിനെയും ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് റാമിലേക്കുള്ള ഇൻലെറ്റ് ദ്രാവകമാണെന്നും ഔട്ട്ലെറ്റ് ദ്രാവകം എന്താണെന്നും നിങ്ങൾക്ക്കാണാം റാംഇൻറെ ചലനം X റാം ആണെങ്കിൽ ഇത് സിലിണ്ടറിന്റെ വിസ്തീർണവും ആണെങ്കിൽ ഇത് പുറത്തുപോകുന്ന ദ്രാവകമാണ് അതിനാൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഒടുവിൽ ആ വ്യത്യാസം ആണ് യഥാർത്ഥത്തിൽ ഫോഴ്സ് സൃഷ്ടിക്കുന്നത് ഫോഴ്സ് സൃഷ്ടിക്കപ്പെടുന്നു ദ്രാവകത്തിന്റെ കംപ്രഷൻ വഴി ആണ് അതിനാൽ തുടക്കത്തിൽ അല്പം ദ്രാവകം നിറഞ്ഞ കംപ്രഷൻ ഉണ്ട് കാരണം ബൾക്ക് മോഡുലസ് വളരെ ഉയർന്നതാണ് അതിനാൽ അത് ഉടനടി വളരെയധികം സമ്മർദ്ദം സൃഷ്ടിക്കുകയും വിസ്തീർണ്ണം കൊണ്ട് ഗുണിക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഫോഴ്സ് ലഭിക്കുന്നു അതാണ് സിലിണ്ടറിലെ പ്രവർത്തനശക്തി സിലിണ്ടറിലും ഒരു ലോഡും ഉണ്ട് അതിനാൽ ഈ വ്യത്യാസം ആണ് യഥാർത്ഥത്തിൽ സിലിണ്ടറിനെ ത്വരിതപ്പെടുത്തുകയും ചലനം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അതിനാൽ ഹൈഡ്രോളിക് സിലിണ്ടറുകളിൽ നിങ്ങൾക്കുള്ള ചലനാത്മകത ഇതാണ് അവ കൃത്യമായി നിയന്ത്രിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ പാഠത്തിൻറെ അവസാനത്തിൽ എത്തി ഫ്ലോവാൽവുകൾ മർദ്ദം നിയന്ത്രണ വാൽവുകൾ ഹൈഡ്രോളിക് സിലിണ്ടറുകൾ പ്രപോർഷനൽ വാൽവുകൾ സെർവോ വാൽവുകൾ ചില ഹൈഡ്രോളിക് ആചുവേറ്റ്ർ സിസ്റ്റങ്ങൾ എന്നിവ കണ്ടു അതെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു സെർവോ വാൽവും പ്രപോർഷനൽ വാൽവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് ഫീഡ്ബാക്കിന്റെ കാര്യത്തിലാണോ പ്രകടന കൃത്യതയുടെ അടിസ്ഥാനത്തിലാണോ ഇത് ഘടന ഡ്രൈവ് വാട്ട് എന്നിവയുടെ കാര്യത്തിലാണോ ഒരു ഹൈഡ്രോളിക് ആചുവേറ്റ്ർ സിസ്റ്റത്തിന്റെ പ്രധാന ഘടകങ്ങൾ തിരിച്ചറിയുക ഇത് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയണം കാരണം ഇത് അടിസ്ഥാനമാണ് അടിസ്ഥാന ഉദ്ദേശ്യങ്ങളിലൊന്ന് അടിസ്ഥാന നിർദ്ദേശ ലക്ഷ്യങ്ങളും ആണ് രണ്ടാം ഘട്ട സെർവോ വാൽവിന്റെ നിർമ്മാണം വരയ്ക്കുക ഇത് കുറച്ച് സമയമെടുക്കും പക്ഷേ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ചിന്തിക്കുക പ്രത്യേകിച്ചും ഫീഡ്ബാക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മളുടെ വാൽവുകൾക്ക് പൈലറ്റ് പ്രവർത്തനം ആവശ്യമായി വരുന്നത് നിങ്ങൾക്ക് ചില യഥാർത്ഥ ഉപയോഗങ്ങൾ ചിന്തിക്കാനും ഒരു ഫ്ലോ കൺട്രോൾ വാൽവിന്റെ പ്രവർത്തനം വിശദീകരിക്കാനും കഴിയുമോ ഇത് ഒരു മെക്കാനിക്കൽ ക്രമീകരണത്തിലൂടെ സമ്മർദ്ദ വ്യതിയാനം കണക്കിലെടുക്കാതെ ഫ്ലോ എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്നത് രസകരമാണ് അതിനാൽ നമ്മുടെ പാഠത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു വളരെ നന്ദി